ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്നെ കുറിച്ചുള്ള സെഷനിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് സംഘടിത തൊഴിലാളികളെ കുറിച്ചാണ് ഇനി നമ്മൾ ലേബർ റിലേഷൻസ് പ്രോസസ് കൈകാര്യം ചെയ്യുക എന്ന വിഷയത്തിലേക്ക് കടക്കും സംഘടിത തൊഴിലാളികൾ എന്താണെന്നും തൊഴിൽ ബന്ധങ്ങൾ എന്താണെന്നും നമ്മൾ സംസാരിച്ചു ഇനി നമുക്ക് മുന്നോട്ട് പോകാം വീണ്ടും ഞാൻ ഉപയോഗിച്ച സ്രോതസ്സുകൾ ഈ രണ്ട് പുസ്തകങ്ങൾ ആണ് യൂണിയൻ സംഘടിപ്പിക്കുന്നത് ലേബർ റിലേഷൻസ് പ്രക്രിയയുടെ മൂന്ന് തരം മാനേജ്മെന്റുകളെക്കുറിച്ച് നമ്മൾ മുൻ പ്രഭാഷണത്തിൽ സംസാരിച്ചു ഞാൻ നിങ്ങൾക്ക് അവയുടെ പേരുകൾ നൽകിയെങ്കിലും അവ എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ലേബർ റിലേഷൻസ് പ്രക്രിയ നിയന്ത്രിക്കാൻ മൂന്ന് വഴികളുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു അതിനാൽ ഒന്ന് യൂണിയൻ സംഘടനയാണ് യൂണിയൻ ഓർഗനൈസിംഗ് പ്രക്രിയ ജീവനക്കാർ ഒരു യൂണിയനുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ സ്വയം ഒരു ഏകീകൃത ഗ്രൂപ്പായി രൂപീകരിക്കപ്പെടുമ്പോളാണ് സംഘടനകൾ അല്ലെങ്കിൽ ജീവനക്കാർ ഒത്തുചേരുകയും യൂണിയനുകൾ രൂപീകരിക്കുകയും ചെയ്യുമ്പോളാണ് അപ്പോഴാണ് അത് കളക്റ്റീവ് ലേബർ ആവുന്നത് ഇത് ഒരു കൂട്ടം ജീവനക്കാർ ഒത്തുചേരുകയും ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയും ചെയുന്നതാണ് അതിനാൽ യൂണിയൻ അഭ്യർത്ഥനയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ആളുകൾ യൂണിയനുകൾ രൂപീകരിക്കുമ്പോൾ ഒരു യൂണിയൻ രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി അവർ ആദ്യം പരസ്യം ചെയ്യുന്നു അവർ അംഗത്വം അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾ ഒരു യൂണിയൻ ഉണ്ടാക്കാൻ പോകുന്നുവെന്ന് അവർ ജനങ്ങളോട് പറയുന്നു അതിനാൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേരണം ഇതാണ് അജണ്ട ഇതുകൊണ്ടാണ് ഞങ്ങൾ ഒന്നിക്കുന്നത് ഇതാണ് പരിഹരിക്കപ്പെടാത്തത് അതിനാൽ അംഗങ്ങളെ യൂണിയനിൽ വരുത്തുകയും ചേർക്കുകയും ചെയ്യുക എന്നതാണ് യൂണിയൻ അഭ്യർത്ഥന എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ രണ്ടാം ഭാഗം യൂണിയൻ രൂപീകരണത്തിനോടുള്ള തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള സംഘടനയുടെ പെരുമാറ്റമാണ് ഇപ്പോൾ ഒരു യൂണിയൻ രൂപീകരിക്കാൻ പോകുമ്പോൾ സംഘടനയ്ക്ക് അസ്വസ്ഥത അനുഭവപ്പെടാം അവർ ചില കാര്യങ്ങൾ ചെയ്തേക്കാം എന്നാൽ അവർക്ക് ഒരു യൂണിയൻ സ്വീകാര്യത തന്ത്രമുണ്ടെങ്കിൽ ഇത് പ്രശ്നമല്ല പക്ഷേ യൂണിയൻ എന്തുചെയ്യും അല്ലെങ്കിൽ എന്തിനാണ് യൂണിയൻ രൂപീകരിക്കുന്നത് എന്നെല്ലാം ഓർത്ത് അവർ ഭയപ്പെടുന്നുവെങ്കിൽ അപ്പോൾ വിവിധ കാര്യങ്ങൾ സംഭവിക്കാം സംഘടന ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയേക്കാം സംഘടന പറഞ്ഞേക്കാം ശരി നിങ്ങൾ ഒരു യൂണിയൻ ഉണ്ടാക്കിയാൽ ഞങ്ങൾ നിങ്ങളെ പുറത്താക്കും നിങ്ങൾ ഒരു യൂണിയൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ആനുകൂല്യമോ ആ ആനുകൂല്യമോ ഞങ്ങൾ നിങ്ങൾക്ക് നൽകില്ല അതിനാൽ ഇങ്ങനെയുള്ള ഭീഷണികൾ ഉണ്ട് അപ്പോൾ ചില നെഗറ്റീവ് ബലപ്പെടുത്തലിനുള്ള സാധ്യതയുണ്ടാകുന്നു ചില പ്രതികൂലമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ ഭീഷണിപ്പെടുത്തൽ ഉണ്ട് ഭീഷണിപ്പെടുത്തൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആരെങ്കിലും നിങ്ങളെ നിർബന്ധിക്കാൻ ശ്രമിക്കുന്നു ആരെങ്കിലും നിങ്ങളോട് നിങ്ങളുടെ യൂണിയൻ നിലനിൽക്കില്ല എന്ന് പറയാൻ ശ്രമിക്കുന്നു എന്നെല്ലാമാണ് അതിനാൽ ഭയപ്പെടുത്തുക എന്നതിനർത്ഥം ആരെയെങ്കിലും ഭീഷണിപ്പെടുത്തുന്നതിനേക്കാൾ അല്പം വ്യത്യസ്തമാണ് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ട് എന്നാണ് ഭയപ്പെടുത്തുക എന്നത് അർത്ഥമാക്കുന്നത് ഭീഷണിപ്പെടുത്തൽ അർത്ഥമാക്കുന്നത് നിങ്ങൾ ആരോടെങ്കിലും യൂണിയൻ വളരെ ചെറിയ നിസാരമായി ഒന്നാണ് അതിൽ നിന്ന് ഗുണകരമായ ഒന്നും തന്നെ പുറത്തുവരില്ല എന്ന് പറയുന്നതാണ് സംഘടന വളരെ വലുതാണ് കൂടാതെ യൂണിയൻ രൂപീകരിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ആളുകൾ ആശ്ചര്യപ്പെടുന്നു അതിനാൽ അവരോട് സംഘടന വളരെ സീനിയറാണെന്ന് നിങ്ങൾ പറയും കൂടാതെ സംഘടനക്ക് നിങ്ങൾക്കായി പലതും ചെയ്യാൻ കഴിയും അത് എന്താണെന്ന് നമുക്കറിയില്ല സംഘടന എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം അതിനാൽ നിങ്ങൾക്ക് ഭയം തോന്നുന്നു നിങ്ങൾക്ക് ഒരുതരം സമ്മർദ്ദം അനുഭവപ്പെടുന്നു അപ്പോൾ വാഗ്ദാനങ്ങൾ ഉണ്ടാകാം ഒരു സ്ഥാപനം അതിന്റെ ജീവനക്കാർ ഒത്തുചേരുന്നതായി അറിഞ്ഞാൽ ഒരു യൂണിയൻ സബ്സ്റ്റിറ്റ്യൂഷൻ തന്ത്രത്തിലേക്ക് പോകാൻ അത് തീരുമാനിച്ചേക്കാം നിങ്ങളുടെ ജീവനക്കാരെ യൂണിയൻ രൂപീകരിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കാൻ അവർക്ക് ശ്രമിക്കാം ഒരു യൂണിയൻ രൂപീകരിക്കാതിരിക്കാൻ ജീവനക്കാരെ ബോധ്യപ്പെടുത്താൻ ജീവനക്കാർക്ക് വാഗ്ദാനം നൽക്കികൊണ്ട് അവർ ശ്രമിച്ചേക്കാം എന്താണ് അവർക്ക് വാഗ്ദാനം ചെയ്യുന്നത് ചില കാര്യങ്ങൾ ചില നേട്ടങ്ങൾ ചില പോസിറ്റീവ് ബലപ്പെടുത്തലുകൾ എന്നിവ സംഘടനകൾ ചെയ്യുന്ന മറ്റൊരു കാര്യം മീറ്റിംഗുകളുടെ നിരീക്ഷണമായിരിക്കാം ഒരു യൂണിയൻ രൂപീകരിക്കാൻ ശ്രമിക്കുന്ന ജീവനക്കാർ നടത്തുന്ന മീറ്റിംഗുകളിൽ ചാരപ്പണി നടത്താൻ അവർ തീരുമാനിച്ചേക്കാം ഇനി ഈ കാര്യങ്ങൾ നിയമപരമാണോ അല്ലയോ എന്ന് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ നിയമം അനുസരിച്ച് നിങ്ങൾ താമസിക്കുന്ന സംസ്ഥാനത്തിന്റെ നിയമം അനുസരിച്ച് ഒരുപക്ഷേ രാജ്യത്തിന്റെ നിയമമനുസരിച്ച് നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് പക്ഷേ എന്താണ് നിയമപരവും എന്താണ് അല്ലാത്തതും എന്നത് തമ്മിൽ വളരെ സൂക്ഷ്മമായ വ്യത്യാസങ്ങൾ ആണ് ഉള്ളത് ഞാൻ ഉദ്ദേശിച്ചത് ഈ കേസിൽ നിയമത്തിന്റെ വളരെ സൂക്ഷ്മമായ വ്യാഖ്യാനങ്ങൾ ഉണ്ട് അതിനാൽ നിങ്ങളുടെ സ്ഥാപനം എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിയമം അറിയേണ്ടതുണ്ട് അല്ലെങ്കിൽ നിയമം അറിയുന്ന ആരെയെങ്കിലും കണ്ടെത്തുക എന്നത് നിങ്ങൾക്ക് പ്രധാനമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനം ഒരു യൂണിയൻ രൂപീകരണത്തോട് പ്രതികരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിയമപരമായി നിങ്ങൾക്ക് സ്വീകരിക്കാവുന്ന നടപടികൾ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം യൂണിയനുകൾ ഉണ്ടാക്കുന്നതിലെ മറ്റൊരു വശം അല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം യൂണിയൻ ഭാരവാഹികൾ എന്ന നിലയിൽ വോട്ടുനേടാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളുടെ യോഗ്യത നിർണ്ണയിക്കുക എന്നതാണ് അതിനാൽ ഒരു താൽക്കാലിക തൊഴിലാളിയെ ഒരു അംഗമാക്കാം അവരെ യോഗങ്ങളുടെ നിരീക്ഷണത്തിന് ചുമതലപെടുത്താം ഇതെല്ലാം നിങ്ങൾക്ക് തീരുമാനിക്കാം ഒരു യൂണിയൻ രൂപീകരിക്കാൻ ശ്രമിക്കുന്ന ജീവനക്കാർ നടത്തിയ യോഗങ്ങളിൽ ചാരപ്പണി നടത്താൻ അവർ തീരുമാനിച്ചേക്കാം സംഘടനയുടെ തൊഴിലാളി യൂണിയനിൽ അവർ അംഗമാകാം ഇതിനർത്ഥം ഈ താത്കാലിക തൊഴിലാളിയുടെ താൽപ്പര്യങ്ങൾ യൂണിയൻ നോക്കാം എന്നാണ് പക്ഷേ താത്കാലിക തൊഴിലാളിക്ക് യൂണിയന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ ഭാരവാഹിയോ ആകാൻ കഴിയില്ല അതിനാൽ അത് നിങ്ങൾക്ക് എടുക്കാവുന്ന ചില തീരുമാനമാണ് നിങ്ങൾക്ക് ഒരു താത്കാലിക തൊഴിലാളി യൂണിയൻ പ്രസിഡന്റായി വരുന്നത് ശരിയായി തോന്നാം പക്ഷേ ചില ആളുകൾക്ക് അത് ശരിയാകണമെന്നില്ല അതിനാൽ നിങ്ങൾ പറഞ്ഞേക്കാം ശരി സംഘടനയിൽ 5 വർഷവും 10 വർഷവും 20 വർഷവും പ്രവർത്തിച്ചിട്ടുള്ള ആർക്കും യൂണിയന്റെ നേതൃത്വത്തിനായി മത്സരിക്കാം പക്ഷേ യൂണിയനിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ആരുടെയും താൽപ്പര്യങ്ങൾ അവർ ഭാരവാഹികളായാലും അല്ലെങ്കിലും പ്രതിനിധീകരിക്കപ്പെടും അതിനാൽ ആ യൂണിയനിലെ ഭാരവാഹികളാകാൻ സാധ്യതയുള്ള ആളുകളുടെ യോഗ്യത യൂണിയൻ അംഗങ്ങൾ നിർണ്ണയിക്കേണ്ടതുണ്ട് തൊഴിൽ ബന്ധങ്ങളെ സമീപിക്കാവുന്ന മറ്റൊരു മാർഗം കൂട്ടായ വിലപേശലാണ് കൂട്ടായ വിലപേശൽ ഒരു തൊഴിലുടമയും ഒരു കൂട്ടം ജീവനക്കാരും തമ്മിലുള്ള ചർച്ചകൾ ഉൾക്കൊള്ളുന്നു അങ്ങനെ തൊഴിൽ വ്യവസ്ഥകൾ നിർണ്ണയിക്കും കൂട്ടായ വിലപേശലിനു വേണ്ടിയാണ് യൂണിയനുകൾ രൂപീകരിക്കുന്നത് കൂട്ടായ വിലപേശൽ നമുക്ക് ഈ വാക്കിനെ രണ്ടായി തിരിക്കാം ഈ പദപ്രയോഗത്തിൽ രണ്ട് വാക്കുകൾ ഉൾകൊള്ളുന്നു കൂട്ടായ അതായത് ആളുകൾ ഒത്തുചേരുന്ന് വിലപേശുന്നു തുടർന്ന് ആ കൂട്ടായ്മയുടെ ഒരു യൂണിറ്റിനെ പ്രതിനിധീകരിച്ച് കാര്യങ്ങൾ ചെയ്തുതീർക്കാൻ ചർച്ച നടത്തുന്നു കൂടാതെ യൂണിയനുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ തൊഴിൽ ബന്ധങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ലേബർ കൂട്ടായ്മകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ലേബർ കൂട്ടായ്മകളുടെ പ്രാഥമിക പരിഗണന തൊഴിൽ സാഹചര്യങ്ങൾ നിർണ്ണയിക്കുക എന്നതാണ് എല്ലാ ജീവനക്കാർക്കും തൊഴിൽ സാഹചര്യങ്ങൾ സുഖകരമാണെന്ന് ഉറപ്പാക്കേണ്ടത് ന്യായമാണ് ഇതിലെ ചില പ്രശ്നങ്ങൾ ഒന്ന് വിലപേശൽ സ്വഭാവമാണ് നല്ല വിശ്വാസത്തോടെയുള്ള വിലപേശൽ അർത്ഥമാക്കുന്നത് അഭിപ്രായവ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും മറുകക്ഷിയോട് ന്യായമായ രീതിയിൽ പെരുമാറുക എന്നതാണ് അതിനർത്ഥം ആരെങ്കിലും വന്ന് പറയുകയാണെങ്കിൽ അതായത് നിങ്ങൾ മേശയ്ക്ക് കുറുകെ ഇരിക്കുകയാണ് സംഘടനയുടെ ഏതാനും പ്രതിനിധികളുണ്ട് കൂടാതെ യൂണിയന്റെ ഏതാനും പ്രതിനിധികളും ഉണ്ട് നിങ്ങൾ ഒരുമിച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് താങ്ങാനാവുന്ന ഭവനം വേണം ഓരോ ജീവനക്കാരനും ഫാക്ടറിക്ക് സമീപം എവിടെയെങ്കിലും താമസിക്കാൻ ഒരിടം വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഞങ്ങൾ ജോലി ചെയ്യുന്ന ഫാക്ടറിക്ക് സമീപം എവിടെയെങ്കിലും താമസയോഗ്യമായ വീടുകൾ ഞങ്ങൾക്ക് നൽകേണ്ടത് നിങ്ങളുടെ ജോലിയാണ് അപ്പോൾ ഫാക്ടറി ഉടമകൾ പറയുന്നു ഞങ്ങൾക്ക് മതിയായ ഭൂമിയില്ല അത് ഞങ്ങൾ കാര്യമാക്കുന്നില്ലെന്ന് യൂണിയൻ അംഗങ്ങൾ പറയുന്നു ഞങ്ങൾ വരുന്നത് വളരെ ദൂരത്ത് നിന്നാണ് ഇത് വളരെ അപകടകരമായ സ്ഥലമാണ് ഞങ്ങൾക്ക് എട്ട് മണിക്കൂർ ഷിഫ്റ്റ് ഉണ്ട് ചിലപ്പോൾ ഞങ്ങൾ രാത്രി 10 മുതൽ രാവിലെ 6 വരെ ജോലി ചെയ്യുന്നു ഞങ്ങൾക്ക് ഉറങ്ങാൻ ഒരു സ്ഥലം വേണം ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ തങ്ങാൻ നിങ്ങൾ ക്രമീകരണങ്ങൾ ചെയ്യണം അപ്പോൾ ഈ ആളുകൾ പറയുന്നു പക്ഷേ ഞങ്ങൾക്ക് സ്ഥലമില്ല ഭൂമിയില്ല അതിനാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു ഒപ്പം ഇത് ഒരു സ്തംഭനാവസ്ഥയുണ്ടാക്കുന്നു കഴിഞ്ഞ തവണ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഇത് ഒരു തടസ്സം ആകുന്നു കൂടാതെ ഇനി ചർച്ച സാധ്യമല്ല എന്ന ഒരു പോയിന്റിൽ നിങ്ങൾ എത്തുന്നു ഇവിടെ രണ്ട് കൂട്ടരും ശരിയാണ് അതിനർത്ഥം ആരെങ്കിലും എഴുന്നേറ്റു മറ്റൊരാളെ തല്ലും എന്നല്ല നിങ്ങൾ പറയും ശരി വിയോജിക്കാൻ നമുക്ക് സമ്മതിക്കാം ഒപ്പം നമുക്ക് ഒരുമിച്ച് ഒരു പരിഹാരം കണ്ടെത്താം അതിനാൽ ഇതിനെ ഗുഡ് ഫെയ്ത് വിലപേശൽ എന്ന് വിളിക്കുന്നു വിയോജിക്കാൻ സമ്മതിക്കുന്നു അതോടൊപ്പം മറ്റേ കക്ഷിയുടെ കാഴ്ചപ്പാട് കൂടി മനസ്സിലാക്കുന്നു കൂടാതെ നിങ്ങൾ പറയും നിങ്ങൾ ഞങ്ങളോട് യോജിക്കുന്നില്ലെങ്കിൽ ശരി നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ മറ്റൊരു വഴി കണ്ടെത്തും പക്ഷേ ഞങ്ങൾ അക്രമാസക്തരാകാൻ പോകുന്നില്ല ഞങ്ങൾ ആക്രമണകാരികളാകില്ല ഞങ്ങൾ ചീത്ത വിളിക്കില്ല ഞങ്ങൾ വ്യക്തിപരമാകില്ല അതിനാൽ ഗുഡ് ഫെയ്ത് വിലപേശൽ എന്ന് അതിനെ വിളിക്കുന്നു യുക്തിപരമായ പോയിന്റുകളിൽ മാത്രം നിങ്ങൾ വിലപേശുന്നു നിങ്ങൾ കൂടിയാലോചന നടത്തുന്നു നിങ്ങൾ വാദിക്കുന്നു നിങ്ങൾ ചർച്ച ചെയ്യുന്നു ഇവിടെ രണ്ടാമത്തെ പ്രശ്നം തന്ത്രം ഉപയോഗിച്ച് അധികാരം വിലപേശുക എന്നതാണ് ഏതുതരം തന്ത്രമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റീവ് ഒരു മിനിറ്റിനുള്ളിൽ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കും അത് മികച്ച ഫലം തരാൻ സാധ്യതയുള്ള ഒന്നാണ് അതിനാൽ ഏത് തന്ത്രമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് മറ്റൊരു പ്രശ്നം ഇവിടെ വിലപേശൽ വിഷയങ്ങളാണ് നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ജീവനക്കാർക്കും ഓർഗനൈസേഷനും പ്രധാനമായ വേതനം സമയം തൊഴിൽ സാഹചര്യങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യമുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് അനുയോജ്യവും എല്ലായ്പ്പോഴും സഹായകരവുമാണ് നിങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ചല്ല സംസാരിക്കുന്നതെങ്കിൽ അത് വേണ്ടത്ര ഗൌരവമുള്ളതായി പരിഗണിക്കപ്പെടില്ല അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ ഒരു ജീവനക്കാരുടെ യൂണിയനും സംഘടനയും തമ്മിൽ ചർച്ച ചെയ്യപ്പെടുന്നതിന് വേണ്ടത്ര അനുയോജ്യമല്ല വിലപേശലിലെ തടസ്സം പരിഹരിക്കപ്പെടാതെ തുടരുന്ന അവസാന ഘട്ടങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ആണ് തടസ്സങ്ങൾ നിങ്ങൾ ഒരു സ്തംഭനാവസ്ഥയിൽ എത്തുന്നു ഇരു കക്ഷികൾക്കും ചർച്ച ചെയ്യാൻ കഴിയാത്ത ഒരു ഘട്ടത്തിൽ നിങ്ങൾ എത്തിച്ചേരുന്നു കൂടാതെ അവർ പറയുന്നതിലൊന്നും തമ്മിൽ ഓവർലാപ്പ് ഇല്ല ആ ഘട്ടത്തെയാണ് തടസ്സം എന്ന് വിളിക്കുന്നത് ഉച്ചാരണം അങ്ങനെയാണെങ്കിലും പക്ഷേ അതിന് ഐ എം പി എ എസ് എസ് ഇ എന്ന് എഴുതിയിരിക്കുന്നു വിലപേശൽ മര്യാദ വളരെ വളരെ പ്രധാനമാണ് നിങ്ങൾ ആരുമായും വിലപേശുമ്പോളും മറ്റ് വിലപേശൽ ടീമിനോട് മര്യാദ കാണിക്കണം തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ വരുന്നു മേശയ്ക്ക് കുറുകെ ഇരിക്കുക അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം വാഗ്ദാനം ചെയ്യുക അവർക്ക് ചായ നൽകൂ അവർക്ക് ലഘുഭക്ഷണങ്ങൾ വാഗ്ദാനം ചെയ്യുക എന്നിട്ട് പറയൂ തണുപ്പാണ് നമുക്കെല്ലാവർക്കും ഒരു കപ്പ് ചായ കുടിക്കാം എന്നിട്ട് ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുക അതിനാൽ നിങ്ങൾ കുറഞ്ഞത് പരസ്പരം ബഹുമാനത്തോടെ പെരുമാറണം കൂടാതെ ഞാൻ ഇവിടെ കുറച്ച് ഹിന്ദി വാക്കുകൾ ഉപയോഗിക്കാൻ പോകുന്നു ഇത് മനസ്സിലാക്കാത്ത ആളുകൾക്ക് ഇതിന്റെ ആശയം മനസ്സിലാകണമെന്നില്ല പക്ഷേ ഞാൻ അനുമാനിക്കുന്നത് ഇന്ത്യക്കകത്തെ വലിയൊരു വിഭാഗം ശ്രോതാക്കൾ ഞാൻ പറയുന്നത് മനസ്സിലാക്കുമെന്നാണ് അതിനാൽ ഹിന്ദി വാക്കുകൾ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം ഞാൻ എടുക്കാൻ പോകുന്നു കൂടാതെ നിങ്ങൾ തു എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല എന്നാണ് ഇതിനർത്ഥം നിങ്ങൾക്കറിയാമോ ഹിന്ദിയിൽ ഞങ്ങൾക്ക് മറ്റൊരു വ്യക്തിയെ അഭിസംബോധന ചെയ്യാൻ മൂന്ന് വഴികളുണ്ട് അത് തു തും ആപ് എന്നിവയാണ് അതിനാൽ ഏറ്റവും ഔപചാരികവും മാന്യവുമായിട്ട് നിങ്ങൾ എന്ന് പറയാനുള്ള മാർഗമായ ആപ് ഉപയോഗിക്കുന്നതാണ് നല്ലത് ആപ് മത് ആപ് യേസ മത് കഹിയേ ആപ് കി ബാത് ഹം നഹി മാൻ സക്തേ നിങ്ങൾക്കറിയാം അതിനാൽ ദയവായി ഇത് പറയരുത് നിങ്ങൾ ഇത് പറയാൻ പാടില്ല ഞങ്ങൾക്ക് നിങ്ങളെ കേൾക്കാൻ കഴിയില്ല പക്ഷേ ഒരിക്കലും തു എന്ന തലത്തിലേക്ക് ഇറങ്ങരുത് അത് വളരെ അനാദരവുള്ളതും വളരെ പരുഷമായി മാറുന്നു തു വളരെ അനൌപചാരികമാണ് ചിലപ്പോഴൊക്കെ നീ എന്ന വാക്ക് നീയെന്ന പദപ്രയോഗം ഉപയോഗിക്കാം പക്ഷെ മറ്റ് വിലപേശൽ ടീമുമായി സൌഹൃദപരമായി പെരുമാറുക അവർ എവിടെ നിന്നാണ് വരുന്നതെന്ന് നിങ്ങൾക്കറിയാമെന്ന് അവരെ അറിയിക്കുക ജീവനക്കാരുടെ യൂണിയൻ പ്രതിനിധികൾ എന്ന നിലയിൽ നിങ്ങളുടെ ജീവിത സ്രോതസ്സ് നിങ്ങൾക്ക് നൽകുന്ന നിങ്ങൾക്ക് ജീവിക്കാനുള്ള പണം നൽകുന്ന ഫാക്ടറി തന്നെ കത്തിക്കാനല്ല നിങ്ങൾ ഇറങ്ങിയിരിക്കുന്നതെന്ന് ഓർഗനൈസേഷനെ അറിയിക്കുന്നത് എല്ലായ്പ്പോഴും സഹായകരമായിരിക്കും നിങ്ങൾ അവിടെ ഉള്ളത് എന്തെങ്കിലും തകർക്കാൻ വേണ്ടി അല്ല നിങ്ങൾക്ക് എവിടെ നിന്ന് പരമാവധി പ്രയോജനം ലഭിക്കും എന്ന് കാണാൻ മാത്രമാണ് നിങ്ങൾ ശ്രമിക്കുന്നത് പക്ഷേ നിങ്ങൾ ഒന്നും നശിപ്പിക്കാൻ വന്നതല്ല അതിനാൽ നിങ്ങൾ സൌഹൃദപരമായിരിക്കണം ദയവായി പരസ്പരം വീക്ഷണം മനസ്സിലാക്കുവാൻ ശ്രമിക്കുക ടീം ഐക്യദാർഢ്യം നിലനിർത്തുക അതിനാൽ നിങ്ങളുടെ ടീമിനൊപ്പം നിങ്ങൾ സമഗ്രത നിലനിർത്തണം നിങ്ങൾ ആരുടെ പക്ഷത്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം കൂടാതെ നിങ്ങൾക്ക് ഒരേ ശബ്ദം ഉണ്ടായിരിക്കണം യൂണിയനെ പ്രതിനിധീകരിച്ച് ആറ് പേരുണ്ടെങ്കിൽ ആറ് പേരും യൂണിയന്റെ പക്ഷത്തായിരിക്കണം മാനേജ്മെന്റിനെ പ്രതിനിധീകരിച്ച് ആറുപേരും മാനേജ്മെന്റിന്റെ പക്ഷത്തായിരിക്കണം നിങ്ങൾ ഫ്ലിപ്പുചെയ്യുന്ന ആ നിമിഷം നിങ്ങൾ എതിർകക്ഷിയുമായി യോജിക്കരുത് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ തീരുമാനങ്ങളുടെ കാര്യം വരുമ്പോൾ ശരി ഞങ്ങൾ ഞങ്ങളുടെ ടീമുമായി ചർച്ച ചെയ്യട്ടെ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും സഹായകരമായിരിക്കും ഞങ്ങൾ ഇത് ഞങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യും അതിനുശേഷം ഞങ്ങൾ നിങ്ങളിലേക്ക് മടങ്ങിവരും നിങ്ങളുടെ ടീം അംഗീകരികാത്ത ഒരു തീരുമാനം എടുക്കുന്നതിനുപകരം ബുദ്ധിമുട്ടുള്ള വിലപേശൽ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ അടിസ്ഥാന നിയമങ്ങൾ സ്ഥാപിക്കുക ഇപ്പോൾ ഭവനനിർമ്മാണത്തെ സംബന്ധിച്ചിടത്തോളം വീട് കൂലി പണം ഒരു ജോലിയിൽ നിങ്ങൾ എത്ര പണം സമ്പാദിക്കുന്നു വേതനത്തെ സംബന്ധിച്ചിടത്തോളം ചില നയങ്ങൾ എന്തെങ്കിലും വെച്ചത് എന്തെങ്കിലും തീരുമാനിച്ചത് എന്നിവ എപ്പോഴും സഹായിക്കുന്നു അതിനാൽ നിങ്ങൾ പറയും ശരി ഈ നിയമം അനുസരിച്ച് ഇതാണ് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് ചില സംഖ്യകൾ നോക്കാം നമുക്ക് സ്പ്രെഡ്ഷീറ്റുകൾ നോക്കാം അതിനാൽ നിങ്ങൾ വെറുതെ സംസാരിക്കരുത് ദയവായി ചില അടിസ്ഥാന നിയമങ്ങൾ സ്ഥാപിക്കുക അതിനാൽ പൂർണ്ണമായും യുക്തിയുടെ അടിസ്ഥാനത്തിൽ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക നിഷേധാത്മക വികാരങ്ങൾ നിയന്ത്രിക്കുക നമുക്കെല്ലാവർക്കും ദേഷ്യമുണ്ട് അല്ലെങ്കിൽ നമ്മളെല്ലാവരും പ്രകോപിതരാകും നമുക്കെല്ലാവർക്കും നമ്മുടെ കോപം ഉയരുന്നതായി തോന്നും നമ്മുടെ വികാരങ്ങള കുറിച്ചുള്ള നമ്മുടെ ബോധം അത് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ എപ്പോഴും സഹായിക്കുന്നു നിങ്ങൾ നിശബ്ദത പരിശീലിക്കുക നിങ്ങൾ പറയാൻ പോകുന്നത് ചർച്ചയ്ക്ക് ഒരു മാറ്റവും വരുത്തില്ലായെങ്കിൽ മിണ്ടാതിരിക്കുക വിലപേശാനുള്ള കഴിവ് ഞങ്ങൾ സംസാരിക്കുന്നത് വിലപേശൽ കഴിവിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ചില തന്ത്രങ്ങളിൽ ഒന്ന് ഡിസ്ട്രിബൂട്ടീവ് വിലപേശൽ ആണ് നിങ്ങളുടെ നിബന്ധനകളോട് വിയോജിക്കുന്നതിനുള്ള വില വളരെ ഉയർന്നതായിരിക്കുമെന്ന് ചർച്ചകളിൽ നിങ്ങളുടെ എതിരാളിയെ ബോധ്യപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതിനാൽ ആരെങ്കിലും നിങ്ങളോട് വിയോജിക്കുന്നുവെങ്കിൽ അവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാകാം വിതരണ വിലപേശലിൽ ഒരു വശം വിജയിക്കുകയും മറുവശം തോൽക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് ഇത് രണ്ടിന്റെയും പ്രയോജനം നേടാൻ കഴിയില്ല അതുകൊണ്ട് ഒരു പാർട്ടി ജയിക്കുകയും മറ്റേ പാർട്ടി തോൽക്കുകയും ചെയ്യും തൊഴിലാളികൾ ഒരു നീണ്ട സമരം നിലനിർത്താൻ തയ്യാറാണെന്നും അത് കമ്പനിയുടെ ലാഭത്തെ സാരമായി ബാധിക്കുകയും കമ്പനിയുടെ സ്ഥാനത്തെ അതിന്റെ എതിരാളികൾക്കെതിരെ ദുർബലപ്പെടുത്തുകയും ചെയ്യും എന്ന് മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അവർ ഡിസ്ട്രിബൂട്ടീവ് ബാർഗ്ഗയിനിങ് ഉപയോഗിക്കുന്നു എന്ന് പറയാം നിങ്ങൾ ഞങ്ങളോട് യോജിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പണിമുടക്കുമെന്ന് തൊഴിലാളി സംഘടനകൾ പറയുന്നു ഇത് വലിയ കാര്യമാണ് പക്ഷേ അത് വെറുതെ അങ്ങനെ പറയാനാവില്ല നിങ്ങളുടെ ജീവനക്കാർക്ക് ദീർഘകാലത്തേക്ക് യാതൊരു ശമ്പളവുമില്ലാതെ സ്വയം നിലനിൽക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് പറയാൻ സാധിക്കൂ ഒരു നീണ്ട പണിമുടക്ക് തങ്ങളുടെ ശമ്പളമില്ലാതെ അതിജീവിക്കേണ്ടിവരുന്ന യൂണിയൻ അംഗങ്ങളേക്കാൾ വളരെ മികച്ച രീതിയിൽ നേരിടാൻ സാധിക്കും എന്ന് യൂണിയനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഡിസ്ട്രിബൂട്ടീവ് ബാർഗ്ഗയിനിങ് ഉപയോഗിക്കാൻ മാനേജ്മെന്റ് പ്രവണത കാണിക്കുന്നു അതിനാൽ നിങ്ങൾ പറയുന്നു ശരി ഞങ്ങൾ സമരം ചെയ്യും മാനേജ്മെന്റ് പറയുന്നു ശരി പോയി സമരം ചെയ്യുക നിങ്ങൾ പണിമുടക്കിയാൽ അത് എന്റെ ലാഭത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ പോകുന്നില്ല എനിക്ക് എന്നെത്തന്നെ താങ്ങാൻ കഴിയും പ്രശ്നമില്ല നിങ്ങൾ പണിമുടക്കൂ ഞാൻ എന്റെ കുടുംബത്തോടൊപ്പം ഒരു അവധിക്കാലം എടുക്കും നിങ്ങളുടെ പണിമുടക്കിന് ശേഷം ഞാൻ മടങ്ങിവരും കൂടാതെ നിങ്ങളുടെ പണം തീർന്നുപോകുമ്പോൾ നിങ്ങൾ വീണ്ടും ജോലിയിലേക്ക് വരാൻ തയ്യാറാകും ആ സമയത്ത് അത് നിങ്ങൾക്ക് ആവശ്യമാണ് ഇതിനെ വിതരണ വിലപേശൽ എന്ന് വിളിക്കുന്നു യൂണിയൻ അംഗങ്ങൾ ഒരു നീണ്ട സമരത്തിന്റെ ചെലവ് സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് യൂണിയൻ നേതാക്കൾ വിശ്വസിക്കുമ്പോൾ അവർ വിതരണ വിലപേശൽ തന്ത്രങ്ങൾ സ്വീകരിച്ചേക്കാം കാരണം അത് ദുർബലമായ കമ്പനിക്ക് ഗുരുതരമായ സാമ്പത്തിക നാശമുണ്ടാക്കാൻ സാധ്യതയുണ്ട് അതിനാൽ യൂണിയൻ അംഗങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു നീണ്ട പണിമുടക്ക് നടത്താൻ യൂണിയൻ അംഗങ്ങളെ ബോധ്യപ്പെടുത്താൻ യൂണിയൻ നേതാക്കൾ ശ്രമിച്ചേക്കാം സംയോജിത വിലപേശൽ എന്നത് ശ്രദ്ധയെ സൂചിപ്പിക്കുന്നു ഇത് നിങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കുന്നതിന്റെ പ്രയോജനങ്ങൾ വളരെ ഉയർന്നതായിരിക്കുമെന്ന് ചർച്ചകളിൽ നിങ്ങളുടെ എതിരാളിയെ ബോധ്യപ്പെടുത്തുന്നതിനെ സൂചിപ്പിക്കുന്നു അതിനാൽ ഇത് ഒരു വിൻ വിൻ സാഹചര്യത്തെ സൂചിപ്പിക്കുന്നു ഇപ്പോൾ അവസരമുണ്ടാകുമ്പോൾ ഇരുകൂട്ടർക്കും ഒരു കരാറിലെത്തി പരസ്പരം പ്രയോജനപ്പെടുത്താം തുടർന്ന് നമ്മൾ സംയോജിത വിലപേശലിനായി പോകുന്നു ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ എന്തെന്നാൽ മറ്റ് ചർച്ചക്കാരുടെ യഥാർത്ഥ ആവശ്യങ്ങളും ലക്ഷ്യങ്ങളും മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്നു നമ്മൾ വിവരങ്ങളുടെ ഒരു സ്വതന്ത്ര ഒഴുക്ക് സൃഷ്ടിക്കാൻ ശ്രമിച്ചു കാരണം നമ്മൾ പരസ്പരം പ്രയോജനപ്പെടുത്താൻ പോകുന്നു നമ്മളുടെ സ്രോതസ്സുകളെ കുറിച്ചും നമ്മളുടെ പരിമിതികളെക്കുറിച്ചും കഴിയുന്നത്ര വിവരങ്ങൾ പങ്കിടാൻ ഇത് എല്ലായ്പ്പോഴും സഹായിക്കുന്നു കക്ഷികൾ തമ്മിലുള്ള പൊതുതത്ത്വങ്ങൾ ഊന്നിപ്പറയുകയും വ്യത്യാസങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു അതിനാൽ പറയൂ ശരി ഇവയാണ് ഞങ്ങൾ സമ്മതിക്കുന്ന കാര്യങ്ങൾ അതിനാൽ പൈയുടെ വലുപ്പം വികസിപ്പിക്കാൻ നമുക്ക് ശ്രമിക്കാം അതോടൊപ്പം പാർട്ടിയുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്ന പരിഹാരങ്ങൾക്കായി തിരയുക അതിനാൽ പരിഹാരങ്ങൾ നോക്കുക സാധ്യമായ ബദലുകളുടെ മേഖല വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക നിങ്ങൾ നിങ്ങളുടെ സാധ്യമായ ഓപ്ഷനുകളുടെ ശ്രേണി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക കൂടാതെ ചില പൊതുതത്വങ്ങൾ പര്യവേക്ഷണം ചെയ്യേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾ പൊതുവായ പരിഹാരങ്ങളുടെ വ്യാപ്തി വിപുലീകരിക്കുകയാണെങ്കിൽ അത് എല്ലായ്പ്പോഴും ഇരു കക്ഷികളെയും ഒരു സംയോജിത വിലപേശൽ വ്യായാമത്തിലേക്ക് പോകാൻ സഹായിക്കുന്നു മറ്റ് ചർച്ചക്കാരുടെ നിർദ്ദേശങ്ങളോട് വഴക്കമുള്ള പ്രതികരണങ്ങൾ വികസിപ്പിക്കുക സംയോജിത വിലപേശലിന് ശ്രമിക്കുമ്പോൾ ഒരാൾ വളരെ കർക്കശനായിരിക്കരുത് മറുകക്ഷിക്ക് കാര്യങ്ങൾ തുറന്നുപറയാൻ ഇത് എപ്പോഴും സഹായിക്കുന്നു കൂടാതെ ഈ ഇടപാടിൽ നിന്ന് ഒരാൾക്ക് എന്താണ് വേണ്ടത് ഞങ്ങൾ വിലപേശുന്ന ചില വിഷയങ്ങൾ നിർബന്ധിത വിലപേശൽ വിഷയങ്ങൾ എന്നാൽ സ്ഥാപനത്തിന്റെ തൊഴിൽ ബന്ധങ്ങൾ വേതനം തൊഴിൽ സാഹചര്യങ്ങൾ മുതലായ യൂണിയനും മാനേജ്മെന്റും അടിസ്ഥാനപരമായി പരിഗണിക്കുന്ന വിഷയങ്ങളാണ് അനുവദനീയമായ വിലപേശൽ വിഷയങ്ങൾ കൂട്ടായ വിലപേശൽ സമയത്ത് ഇരു കക്ഷികളും അങ്ങനെ ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ചർച്ച ചെയ്യാം പക്ഷേ ഈ വിഷയങ്ങളിൽ വിലപേശാൻ ഒരു പാർട്ടിക്കും ബാധ്യതയില്ല അതിനാൽ ഞങ്ങൾ വേതനത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് തൊഴിലാളി യൂണിയൻ പറഞ്ഞാൽ പറ്റില്ല എന്ന് സംഘടനയ്ക്ക് പറയാൻ കഴിയാത്ത വിഷയങ്ങളിൽ ഒന്നാണിത് മറുവശത്ത് തൊഴിലാളി യൂണിയൻ ആനുകൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ പറയുന്നു ആനുകൂല്യങ്ങൾ ബോണസ് തുടങ്ങിയവയെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഓർഗനൈസേഷന് എല്ലായ്പ്പോഴും പറയാൻ കഴിയും അതെ നമുക്ക് ബോണസിനെക്കുറിച്ച് സംസാരിക്കാം ഇന്നല്ല മറിച്ച് നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം പക്ഷേ അടിസ്ഥാന സൌകര്യങ്ങളുടെ കാര്യം വരുമ്പോൾ ഉദാഹരണത്തിന് തൊഴിൽ സാഹചര്യങ്ങൾ കടയുടെ തറയിൽ ഹാർഡ്ഹാറ്റുകൾ സംരക്ഷിത കയ്യുറകൾ കടയുടെ തറയിലെ സംരക്ഷണ ഗിയർ എന്നിവ അപ്പോൾ സംഘടനയ്ക്ക് അല്ലെങ്കിൽ മാനേജ്മെന്റിന് ഇല്ല എന്ന് പറയാൻ കഴിയില്ല നിയമവിരുദ്ധമായ വിലപേശൽ വിഷയങ്ങൾ എന്നാൽ കുറഞ്ഞത് ഒരു കക്ഷിയെങ്കിലും അവരുടെ അവകാശങ്ങളുടെ ലംഘനമായി അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിന് ഹാനികരമാണെന്ന് കണക്കാക്കുന്ന വിഷയങ്ങളാണ് അതിനാൽ പക്ഷപാതം വിവേചനം ഇവയെല്ലാം നിയമവിരുദ്ധമായ വിലപേശൽ വിഷയങ്ങളാണ് അത് തൊഴിലാളി യൂണിയനിലൂടെ സത്യത്തിൽ ഒരു ഔദ്യോഗിക ക്രമീകരണത്തിൽ സംസാരിക്കാൻ പാടില്ല വിലപേശലിൽ തടസ്സം ഒന്നോ അതിലധികമോ നിർബന്ധിത വിഷയങ്ങളിൽ കക്ഷികൾക്ക് യോജിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർ വിലപേശലിൽ ഒരു സ്തംഭനാവസ്ഥയിലെത്തുന്നു നിലവിലുള്ള പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നമാണ് തടസ്സം ഒരു സ്തംഭനാവസ്ഥയാണ് കൂടാതെ പരിഹരിക്കപ്പെടാത്ത ഒരു തടസ്സം ഒരു സമരത്തിലേക്ക് നയിച്ചേക്കാം പണിമുടക്കുകളുടെ ചില തരങ്ങൾ ഒരു യൂണിയൻ പണിമുടക്കുമ്പോൾ അവരെ പിന്തുണയ്ക്കാൻ വ്യവസായത്തിലെ മറ്റൊരു യൂണിയൻ തങ്ങളെ പ്രശ്നം നേരിട്ട് ബാധിക്കുന്നില്ലെങ്കിലും ഐക്യദാർഢ്യം കാണിക്കാൻ വേണ്ടി മാത്രം സമരം നടത്തുന്നു അതിനെ നിങ്ങൾക്ക് ഒരു സഹതാപ സമരം എന്ന് വിളിക്കാം അതിനാൽ ശരിയായ രീതിയിൽ പരിഗണിച്ചില്ല അല്ലെങ്കിൽ അവർക്ക് നീണ്ട ജോലി സമയമുണ്ട് എന്നീ കാരണത്താൽ ഒരു ഹോട്ടൽ ജീവനക്കാരൻ ഒരു ഹോട്ടലിലെ ജീവനക്കാർ പണിമുടക്കിയിരിക്കാം അപ്പോൾ അതേ പ്രദേശത്തെ മറ്റൊരു ഹോട്ടൽ അവരോടൊപ്പം നിൽക്കാൻ തീരുമാനിക്കുന്നു അവരെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുന്നു എന്റെ ജീവനക്കാർ പോലും ജോലി ചെയ്യില്ലെന്ന് അവർ പറയുന്നു അല്ലെങ്കിൽ ഒരു ആശുപത്രി പണിമുടക്കാൻ തീരുമാനിക്കുന്നു മറ്റൊരു ആശുപത്രിയിലെ ലാബ് ടെക്നീഷ്യൻമാർ പറയുന്നു ഞങ്ങളുടെ ലാബുകളിൽ ഞങ്ങൾക്ക് സംരക്ഷണ ഉപകരണങ്ങൾ നൽകുന്നില്ല അതിനാൽ ഞങ്ങളും സമരത്തിലേക്ക് പോകും ഞങ്ങളുടെ മാനേജ്മെന്റ് ഞങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ഞങ്ങളും സമരത്തിലേക്ക് പോകും പക്ഷേ ഞങ്ങൾ ഇത് ചെയ്യുന്നത് അവർക്ക് പിന്തുണ നൽകാനാണ് അങ്ങനെ നമ്മുടെ മേലധികാരികൾക്ക് അവരുടെ മേലധികാരികളെ സ്വാധീനിക്കാൻ കഴിയും അതിനാൽ അവർക്ക് ആവശ്യമുള്ളത് ലഭിക്കും ശമ്പളവും ആനുകൂല്യങ്ങളും ഉൾപ്പെടെയുള്ള നഷ്ടപരിഹാരത്തിനു വേണ്ടിയുള്ള സമരമാണ് സാമ്പത്തിക പണിമുടക്ക് വളരെ ലളിതമാണ് ഇത് സ്വയം വിശദീകരിക്കുന്നതാണ് മതിയായ ശമ്പളം ലഭിച്ചില്ലെങ്കിൽ ജീവനക്കാർ പണിമുടക്കും ഉയർന്ന ശമ്പളവും ആനുകൂല്യങ്ങളും അവർ ആവശ്യപ്പെടുന്നു വൈൽഡ്കാറ്റ് സമരം എന്നത് തൊഴിലാളികൾ പ്രകോപിതരാകുമ്പോൾ അവരുടെ സഹപ്രവർത്തകരിലൊരാൾക്കെതിരെ മാനേജ്മെന്റ് എടുക്കുന്ന അച്ചടക്ക നടപടിയെ പ്രതിഷേധിച്ചുകൊണ്ട് സ്വമേധയ ജോലി നിർത്തിവയ്ക്കുന്നതിനെ സൂചിപ്പിക്കുന്നു അതിനാൽ വൈൽഡ് ക്യാറ്റ് സ്ട്രൈക്ക് എന്നത് ഒരു വ്യക്തിക്കെതിരെ സംഘടന എടുക്കുന്ന അച്ചടക്കനടപടിയെ സൂചിപ്പിക്കുന്നു അപ്പോൾ മറ്റ് തൊഴിലാളികൾ ഈ ജീവനക്കാരന് പിന്തുണ അറിയിക്കാൻ ഒരു സമരത്തിന് പോകുന്നു പണിമുടക്കിന്റെ സമയത്ത് നിർണായകമായ സാമഗ്രികൾ നശിപ്പിച്ചേക്കാവുന്നതുകൊണ്ട് ഉണ്ടാകുന്ന അസാധാരണമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് സ്വയം പരിരക്ഷിക്കുന്നതിന് വിലപേശൽ തടസ്സത്തിന് മുമ്പോ അതിനിടയിലോ തൊഴിലുടമ അതിന്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നതിനെയാണ് ലോക്കൌട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ലോക്കൌട്ട് എന്നത് ഒരു സ്ട്രൈക്കിനോടുള്ള തൊഴിലുടമയുടെ പ്രതികരണമാണ് ഒരു പണിമുടക്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജീവനക്കാർ വാതിൽ പൂട്ടി സ്വന്തം പൂട്ട് വെച്ച് ഞങ്ങൾ ഫാക്ടറിയിൽ പ്രവേശിക്കില്ല നിങ്ങളെ ഫാക്ടറിയിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞേക്കാം ഇത്തരമൊരു പണിമുടക്ക് തൊഴിലുടമകൾ പ്രതീക്ഷിച്ചേക്കാം ഒപ്പം അവർ അകത്തു കടന്ന് ഫാക്ടറി അടച്ചുപൂട്ടാനും തീരുമാനിച്ചേക്കാം കൂടാതെ അവർക്ക് കഴിയുന്നതെന്തും അവർ പറയും ചിലപ്പോൾ അവരുടെ ഉൽപ്പാദന പ്രവർത്തനങ്ങൾ ഒരു ബാക്കപ്പ് സൌകര്യത്തിലേക്ക് മാറ്റുകയും ചെയ്യും കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് നശിപ്പിക്കാൻ സാധിക്കുന്ന വസ്തുക്കൾ ഉണ്ടായിരിക്കും അത് നശിപ്പിക്കപ്പെടാം അത് നിങ്ങൾക്ക് വലിയ സാമ്പത്തിക നാശമുണ്ടാക്കാം അതിനാൽ ജീവനക്കാർക്ക് അതിനുള്ള അവസരമുണ്ടാകുന്നതിന് മുമ്പ് നിങ്ങൾ ഫാക്ടറി അടച്ചുപൂട്ടുന്നു കൂടാതെ നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുന്നു ജോലിസ്ഥലത്ത് തൊഴിൽ കരാറിന്റെ പ്രയോഗവും നടപ്പാക്കലും കരാർ ഭരണത്തിൽ ഉൾപ്പെടുന്നു അതിനാൽ നിങ്ങൾക്ക് ഒരു തൊഴിൽ കരാർ ഉണ്ട് കൂടാതെ ആ കരാർ നടപ്പിലാക്കുന്നത് ഇങ്ങനെയാണ് തൊഴിൽ കരാറിന്റെ വ്യാഖ്യാനം സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിട്ടുള്ള വ്യവസ്ഥാപിതമായ ഘട്ടം ഘട്ടമായുള്ള നടപടിക്രമങ്ങളാണ് പരാതി നടപടിക്രമങ്ങൾ നമ്മൾ മറ്റൊരു പ്രഭാഷണത്തിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കും കോൺട്രാക്ട് അഡ്മിനിസ്ട്രേഷന്റെ ചില ഗുണങ്ങൾ എന്തെന്നാൽ അത് ജീവനക്കാരന് ജീവനക്കാരന്റെ കേസ് പ്രതിനിധീകരിക്കുന്ന മാനേജ്മെന്റിന് സമർപ്പിക്കുന്ന ഒരു അഭിഭാഷകനെ നൽകുന്നു ഇത്തരത്തിലുള്ള ഒരു ജീവനക്കാരൻ യൂണിയൻ കാര്യസ്ഥൻ എന്നറിയപ്പെടുന്നു അതിനാൽ സംഘടനയുടെ അവിഭാജ്യ ഘടകമാണ് യൂണിയൻ എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു കൂടാതെ യൂണിയനുകളെ അവരുടെ വീക്ഷണകോണിൽ നിന്ന് സംരക്ഷിക്കാൻ ഞങ്ങൾ ഒരു അഭിഭാഷകനെ നൽകുന്നു യൂണിയന്റെ കൈവശം അത്രയധികം പണമില്ലായിരിക്കാം സംഘടന എന്ന നിലയിൽ ഞങ്ങൾക്ക് കൂടുതൽ വിഭവങ്ങളുണ്ട് അതിനാൽ സ്ഥാപനമെന്ന നിലയിൽ നിങ്ങൾ ജീവനക്കാർക്ക് സ്വയം പ്രതിരോധിക്കാനുള്ള അവസരം നൽകുന്നു മദ്ധ്യസ്ഥൻ എന്നത് ഒരു അർദ്ധ ജുഡീഷ്യൽ പ്രക്രിയയാണ് അത് ഇരു കക്ഷികളെയും ബന്ധിപ്പിക്കുന്നു ഒരു മദ്ധ്യസ്ഥൻ പുറത്ത് നിന്ന് തിരഞ്ഞെടുത്ത ഒരു നിഷ്പക്ഷ വ്യക്തിയാണ് അത് പുറത്ത് നിന്ന് ആയിരിക്കണം ഈ അക്ഷര തെറ്റിന് ക്ഷമിക്കണം സ്ഥാപനത്തിന് പുറത്ത് നിന്ന് തിരഞ്ഞെടുത്ത് യൂണിയനും മാനേജ്മെന്റും ഒരുപോലെ നഷ്ടപരിഹാരം നൽകണം അതിനാൽ നിങ്ങൾ പറയുന്നു ഒരു യൂണിയൻ കാര്യസ്ഥനെ ഞങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങളാണ് യൂണിയൻ കാര്യസ്ഥന് പണം നൽകുന്നത് അയാൾക്ക് നിങ്ങളുടെ കാഴ്ചപ്പാടിനെ പ്രതിനിധീകരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകാം ഒരു മധ്യസ്ഥൻ ഒരു നിഷ്പക്ഷ വ്യക്തിയാണ് ഒരു മദ്ധ്യസ്ഥന് ഇരുവശത്തുനിന്നും പ്രയോജനം ലഭിക്കുന്നു അതിനാൽ നമ്മൾ രണ്ടുകൂട്ടർക്കും യൂണിയനും ഓർഗനൈസേഷനും മദ്ധ്യസ്ഥന്റെ മേൽ തുല്യമായ നിയന്ത്രണമോ തുല്യ അധികാരമോ ഉണ്ട് മദ്ധ്യസ്ഥനെ അവരുടെ താൽപ്പര്യങ്ങൾ പരിപാലിക്കാൻ തുല്യമായി വിശ്വസിക്കുന്നു മധ്യസ്ഥത എന്നാൽ ഇരു കക്ഷികളെയും ബന്ധിപ്പിക്കുന്ന ഒരു അർദ്ധ ജുഡീഷ്യൽ പ്രക്രിയയാണ് അർദ്ധ ജുഡീഷ്യൽ പ്രക്രിയ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അത് യഥാർത്ഥത്തിൽ ജുഡീഷ്യലല്ല അല്ലെങ്കിൽ നിയമപരമല്ല എങ്കിലും ഇത് എങ്ങനെയൊക്കെയോ ജുഡീഷ്യലിന് തുല്യമാണ് പരാതി നടപടിയിലെ ഘട്ടങ്ങൾ പരാതി നടപടിക്രമത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു പരാതി നടപടിക്രമം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ജീവനക്കാരൻ യൂണിയൻ കാര്യസ്ഥനോടും സൂപ്പർവൈസറോടും തന്റെ പരാതിയെക്കുറിച്ച് വാമൊഴിയായി പറയുന്നു അതിനാൽ നിങ്ങൾ നിങ്ങളുടെ സൂപ്പർവൈസറെ സമീപിക്കുന്നു സൂപ്പർവൈസർക്ക് അതിനെക്കുറിച്ച് ഒന്നും ചെയ്യാൻ കഴിഞ്ഞേക്കില്ല തുടർന്ന് ജീവനക്കാരൻ സംഘടനയിലെ യൂണിയൻ കാര്യസ്ഥനും അതോടൊപ്പം സൂപ്പർവൈസർക്കും രേഖാമൂലം പരാതി നൽകുന്നു ആദ്യം നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുമായി വാമൊഴിയായി സംസാരിക്കുക തുടർന്ന് നിങ്ങൾ പരാതി എഴുതി സംഘടനയിലെ ആളുകൾക്ക് നൽകുക എന്നിട്ടും നടപടിയുണ്ടായില്ലെങ്കിൽ നിങ്ങൾ ഇത് സൂപ്പർവൈസിംഗ് യൂണിയൻ കാര്യസ്ഥന് നൽക്കുക അപ്പോഴും അത് പരിഹരിച്ചില്ലെങ്കിൽ നിങ്ങൾ വ്യവഹാരം അവലംബിക്കുക പരാതികളുടെ തരങ്ങൾ തൊഴിൽ കരാറിന്റെ ഭാഷയിൽ അവ്യക്തത കാരണം എന്തെങ്കിലും അസൌകര്യം ഉണ്ടായാൽ അത് കൈകാര്യം ചെയ്യുന്നതിനായി കരാർ വ്യാഖ്യാന പരാതി ഉപയോഗിക്കുന്നു കരാർ വ്യാഖ്യാനം അർത്ഥമാക്കുന്നത് കരാർ അവ്യക്തമാണ് എന്നാണ് വളരെ സങ്കീർണ്ണമായ ഭാഷയിലാണ് ഇത് എഴുതിയിരിക്കുന്നത് കൂടാതെ കരാറിന്റെ നിബന്ധനകൾ നിങ്ങൾക്ക് മനസിലാക്കാൻ കഴിയുന്നില്ല ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഒരു പരാതി ഫയൽ ചെയ്യുന്നു ജീവനക്കാരുടെ അച്ചടക്കത്തെ തുടർന്നുള്ള പരാതി ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ജീവനക്കാരന്റെ അച്ചടക്കമില്ലായ്മ കൈകാര്യം ചെയ്യുന്നതിൽ ഉചിതമായ നടപടിക്രമത്തിന്റെ ഉപയോഗത്തെയാണ് അതിനാൽ ഒരു ജീവനക്കാരൻ അച്ചടക്കമില്ലാത്തവനാണെങ്കിൽ ജീവനക്കാരനിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിൽ പെരമാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ജീവനക്കാരനെതിരെ നടപടി സ്വീകരിക്കുന്നു ഒപ്പം ഒരു പരാതി എന്ന രീതിയിൽ അത് വീണ്ടും മുന്നോട്ട് പോകാം യൂണിയൻ പരാതി നടപടിക്രമങ്ങളുടെ പ്രയോജനങ്ങൾ ഏകപക്ഷീയമായ മാനേജ്മെന്റ് തീരുമാനങ്ങളിൽ നിന്ന് യൂണിയൻ ജീവനക്കാരെ അത് സംരക്ഷിക്കുന്നു എന്നതാണ് ആദ്യത്തെ നേട്ടം അത് സംഘടനാ നീതിക്ക് വേണ്ടിയുള്ള സംവിധാനമാണ് യൂണിയനെ അതിന്റെ അവകാശം നേടുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് യൂണിയൻ പരാതി നടപടിക്രമങ്ങൾ പരാതി നടപടിക്രമം വേഗത്തിലും കാര്യക്ഷമമായും പൊരുത്തക്കേടുകൾ പരിഹരിക്കുന്നതിന് മാനേജ്മെന്റിനെ സഹായിക്കുന്നു അല്ലാത്തപക്ഷം അത് കോടതികളിൽ അവസാനിക്കും അല്ലെങ്കിൽ ജോലി തടസ്സപ്പെടുത്തുകയും ചെയ്യും പരാതി നടപടിക്രമങ്ങൾ മാനേജ്മെന്റിനെ സഹായിക്കുന്നു നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് പരാതി നടപടിക്രമങ്ങളുണ്ട് കൂടാതെ അവ വൈരുദ്ധ്യങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുന്നു സാധാരണ നടപടിക്രമങ്ങളാണ് മാനേജുമെന്റിന് ഒരു മുകളിലേ തലങ്ങളിലേക്കുള്ള ആശയവിനിമയ ചാനലായി ജോലികളുമായോ കമ്പനിയുടെ നയങ്ങളുമായോ ഉള്ള ജീവനക്കാരുടെ അതൃപ്തിയുടെ ഉറവിടങ്ങൾ നിരീക്ഷിക്കാനും ശരിയാക്കാനും പരാതി നടപടിക്രമം ഉപയോഗിക്കാം എച്ച്ആർഎമ്മിൽ യൂണിയനുകളുടെ സ്വാധീനം യൂണിയനുകൾ HRM നെ എങ്ങനെ ബാധിക്കുന്നു നിങ്ങൾക്ക് സ്റ്റാഫ് ഉണ്ട് ഇത് ജീവനക്കാരെ ബാധിച്ചേക്കാം ഇത് ജീവനക്കാരുടെ വികസനത്തെ ബാധിക്കും അത് നഷ്ടപരിഹാരം നൽകുന്നതിനെ ബാധിക്കാം ഇത് ജീവനക്കാരുടെ ബന്ധങ്ങളെ ബാധിക്കാം വളരെ നന്ദി നിങ്ങൾക്കായി എന്റെ കൈയിൽ അത്രയേയുള്ളൂ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചതിന് വളരെ നന്ദി അടുത്ത ലക്ച്ചറിൽ നമ്മൾ ഇന്റർനാഷണൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സംസാരിക്കും